നിങ്ങൾ കാണുന്നതുപോലെ നോഡൽ അനാലിസിസ് സമവാക്യങ്ങൾ പരിഹരിക്കുവാൻ മെട്രിക്സ് ഇൻവേർഷൻ ഉൾപ്പെടുത്തണം അത് നോഡൽ അനാലിസിസ് പരിഹരിക്കുന്നതിന് മാത്രമല്ല ലീനിയർ സമവാക്യങ്ങൾ ഉള്ള ഏതൊരു സിസ്റ്റം പരിഹരിക്കുന്നതിനായി മെട്രിക്സ് ഇൻവേർഷൻ ഉൾപ്പെടുത്തണം അപ്പോൾ ഈ പാഠത്തിൽ നമുക്ക് വളരെ ചുരുക്കത്തിൽ മെട്രിക്സ് ഇൻവേഷൻ സംവിധാനങ്ങൾ നോക്കാം ഇതൊക്കെ നിങ്ങളുടെ ഹൈ സ്കൂൾ ആൾജിബ്രയിൽ നിന്ന് നിങ്ങൾക്ക് അറിയാമെന്നു ഞാൻ സങ്കൽപ്പിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പാഠപുസ്തകത്തിൽ ഇത് കണ്ടെത്താം ഞാൻ ഇതിലൂടെ ഒന്ന് പോകാം അതിനാൽ 2 നോഡ് 3 നോഡ് ഉള്ള ചെറിയ സർക്യൂട്ടിലെ മെട്രിക്സ്സുകൾ നിങ്ങൾക്ക് വേഗത്തിൽ ഇൻവെർട്ട് ചെയ്യാം എന്നിട്ട് മുഴുവൻ പരിഹാരവും കണ്ടുപിടിക്കാം ഇപ്പോൾ പൊതുവായിട്ട് നിങ്ങൾക്ക് ഒരു സ്ക്വയർ മെട്രിക്സ് A ഉണ്ട് അതിന്റെ ഇൻവെർസ് 1 ഓവർ ഡിറ്റർമിനന്റ് A തവണ കോ ഫാക്ടറുകളുടെ മെട്രിക്സ് ആണ് ഞാൻ ഇതിൻറെ നിർവചനങ്ങളിലേക്ക് പോകുന്നില്ല ഞാൻ ഒരു 2 ബൈ 2 3 ബൈ 3 മെട്രിക്സിന്റെ ഫലം കാണിക്കാം ഇനി ഈ അടയാളം തീർച്ചയായും A യുടെ ഡിറ്റർമിനന്റ് ആണ് ഇനി നമുക്ക് ഒരു 2 ബൈ 2 മെട്രിക്സ് എടുക്കാം A a11 a12 a21 a22 കൂടാതെ A യുടെ ഇൻവെർസ് 1 ഓവർ ഡിറ്റർമിനന്റ് A എനിക്ക് തോന്നുന്നു അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമെന്നു അത് ഡയഗണൽ പദങ്ങളുടെ ഗുണനം ആണ് a11 തവണ a22 മൈനസ് ഓഫ് ഡയഗണൽ പദങ്ങൾ a21 a12 തവണ മെട്രിക്സിന്റെ കോ ഫാക്ടറിന്റെ ഗുണനം ഇത് ഒരു 2 ബൈ 2 മെട്രിക്സിൽ വളരെ എളുപ്പം ആണ് അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഡയഗണൽ പദങ്ങൾ അതായതു a22 ഇവിടെ വരും a11 അവിടെ പോകും അപ്പോൾ ഇത് രണ്ടിന്റെയും സ്ഥാനങ്ങൾ തമ്മിൽ മാറ്റുന്നതാണ് മറ്റ് രണ്ടിന്റെയും സ്ഥാനങ്ങൾ അങ്ങനെതന്നെ നിലനിർത്തും പക്ഷേ അവയുടെ ചിഹ്നം മാറ്റും അപ്പോൾ ഇവിടെയും പിന്നെ ഇവിടെയും നിങ്ങൾക്ക് മൈനസ് ഇവിടെയും മൈനസ് അത്രയും മാത്രം ഇനി നമുക്ക് മുന്നത്തെ ഉദാഹരണത്തിലേക്ക് തിരിച്ചു പോകാം അതായത് നമുക്ക് G മെട്രിക്സ് ഉണ്ട് അത് 3 ബൈ 2 മൈനസ് 1 മൈനസ് 1 5 ബൈ 4 മില്ലിസിമെൻസ് ഉണ്ട് അപ്പോൾ ഇതിന്റെ ഇൻവെർസ് 1 ബൈ ഇത് രണ്ടിന്റെയും ഗുണനം അതായതു 3 ബൈ 2 തവണ 5 ബൈ 4 ഇത് ഓരോന്നും മില്ലിസിമെൻസ് ആണ് അപ്പോൾ ഇതിന്റെ യൂണിറ്റ് മില്ലിസിമെൻസ് സ്ക്വയർ മൈനസ് ഇതിന്റെ രണ്ടിന്റേം ഗുണനം അത് 1 മില്ലി സിമെൻസ് സ്ക്വയർ ആണ് എനിക്ക് ഡയഗണൽ ഘടകങ്ങൾ തമ്മിൽ മാറ്റി വെക്കണം അപ്പോൾ എനിക്ക് അവിടെ 5 ബൈ 4 മില്ലിസിമെൻസ് കിട്ടും 3 ബൈ 2 മില്ലിസിമെൻസ് അവിടെ കിട്ടും ഈ മൈനസ് 1 1 മില്ലിസിമെൻസ് ആകും മറ്റേ മൈനസ് 1 1 മില്ലിസിമെൻസ് ആകും ഈ മൊത്തം ഇത് ലളിതമാക്കിയാൽ 7 ബൈ 8 മില്ലിസിമെൻസ് സ്ക്വയർ കിട്ടും അപ്പോൾ എനിക്ക് 8 ബൈ 7 മില്ലിസിമെൻസ് സ്ക്വയർ തവണ ഈ എല്ലാ രേഖപ്പെടുത്തലുകളും ഇത് 10 ബൈ 7 കിലോ ഓം നമുക്ക് തരും എനിക്ക് ഈ കിലോ ഓം കിട്ടും കാരണം എനിക്ക് മില്ലിസിമെൻസ് ഡിവൈഡഡ് ബൈ മില്ലിസിമെൻസ് സ്ക്വയർ 8 ബൈ 7 കിലോ ഓം കൂടാതെ 12 ബൈ 7 കിലോ ഓം ഇതാണ് ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഇതിനെ നോഡ് വോൾടേജ് കിട്ടുന്നതിനായി കറണ്ട് സ്രോതസ്സ് വെക്റ്റർ വെച്ച് ഗുണിച്ചു അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3 ബൈ 3 മെട്രിക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം മെട്രിക്ക്സിൻറെ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു ഇൻവെർസ് കണ്ടുപിടിക്കാം വേറെ മെട്രിക്സുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബുക്കുകളിൽ നോക്കാം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരേയൊരു കാര്യം ക്രാമേർസ് റൂൾ ആണ് ഞാൻ എൻറെ നോഡൽ അനാലിസിസ് സമവാക്യം പറയട്ടെ G തവണ V I ആണ് ഞാൻ ഇത് V എന്ന് സങ്കൽപ്പിക്കും അപ്പോൾ ഞാൻ ഒരു 3 ബൈ 3 മെട്രിക്സ് ഒരു 4 നോഡ് ഉള്ള സർക്യൂട്ടിനെ സങ്കൽപ്പിക്കും അത് 3 KCL സമവാക്യങ്ങൾ ആയിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത് പൊതുവായിട്ട് മൂന്ന് പൂജ്യം അല്ലാത്ത ഘടകങ്ങൾ I1 I2 I3 ഉണ്ട് ഇവ ഓരോന്നുമാണ് ഓരോ നോഡിലേക്കും കൊടുക്കപ്പെടുന്നത് ഇവ ഓരോന്നും ഓരോ കറണ്ട് സ്രോതസ്സുകളുടെ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആകണമെന്ന് ഇല്ല പക്ഷെ ഇവ നോഡ് 1 2 3 എന്നിവയിലേക്ക് കൊടുക്കുന്ന മൊത്തം കറണ്ടിനെ യോജിച്ചിരിക്കും ഇനി നിങ്ങൾ ഈ വെക്ടറുകൾ മുഴുവനും പരിഹരിക്കുവാൻ നോക്കുന്നില്ലെങ്കിൽ ക്രാമെർസ് റൂൾ സൌകര്യമാണ് എന്നിട്ട് നമുക്ക് പറയാം നമുക്ക് അതിൽ ഒരെണ്ണം വേണമെന്ന് നമ്മൾ പറയുകയാണെങ്കിൽ V1 നിങ്ങൾ എന്തു ചെയ്യും എന്ന് വച്ചാൽ V1 രണ്ടു ഡിറ്റർമിനന്റ്കളുടെ അനുപാതം ആണ് ഇതിന്റെ ഡിനോമിനേറ്ററിൽ നമുക്ക് G മെട്രിക്സ് ഉണ്ട് g11 g12 g13 g21 g22 g23 കൂടാതെ g31 g32 g33 ന്യുമേറേറ്റർ അടിസ്ഥാനപരമായി G മെട്രിക്സ് ആണ് ഒരു കോളം വലതു വശം വെച്ച് പകരം മാറ്റി വെച്ചിരിക്കുന്നു ഈ കേസിൽ നമുക്ക് V1 വേണം അതിനാൽ ആദ്യത്തെ കോളം വലതു വശം വെച്ച് പകരം മാറ്റി വെച്ചിരിക്കുന്നു ഈ രണ്ടും പഴയതുപോലെ തന്നെയാണ് അതുപോലെതന്നെ നമുക്ക് V2 വേണമെങ്കിൽ ഇവിടെ നമുക്ക് G ഉണ്ട് രണ്ടാമത്തെ കോളം I ആകും I1 I2 I3 അതുപോലെതന്നെ V3 ക്കു നമ്മൾ ഈ വലതു വശത്തെ വെക്റ്റർ എടുത്താൽ ഇത് മൂന്നാമത്തെ കോളത്തിൽ ഇടുക ആ ഡിറ്റർമിനന്റിനെയും G മെട്രിക്ക്സിന്റെ ഡിറ്റർമിനന്റിന്റെയും അനുപാതം എടുക്കുക ഇത് ചിലപ്പോൾ ഉപകാരമായി വരാം വീണ്ടും ഇത് കൈകൊണ്ടുള്ള അനാലിസിസ് ആണ് 3 ബൈ 3 ആണ് ഏറ്റവും സങ്കീർണ്ണമായിട്ടുള്ളത് നിങ്ങൾക്ക് വലിയ സർക്യൂട്ടുകൾ അതായത് 3 ബൈ 3 നേക്കാളും കൂടുതൽ ആയിട്ടുള്ള കേസുകളിൽ അവ പരിഹരിക്കുന്നതിനായി ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കുക